നമസ്കാരം ഇന്നത്തെ ലക്ച്ചറിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈബ്രോനെക്റ്റിൻ അൺ ഫോൾഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ഫൈബ്രോനെക്റ്റിൻ സ്ട്രീം മൊഡ്യൂളിനുള്ളിലെ വ്യക്തിഗത ഡൊമെയ്നുകളുടെ സിഗ്നേച്ചർ നിർണ്ണയിക്കാൻ പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനെക്കുറിച്ചും ചർച്ചചെയ്തു നിങ്ങൾ ചെയ്യേണ്ട ഘട്ടങ്ങൾ ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നിലധികം പ്രോട്ടീൻ കൺസ്ട്രക്ക്ടസ് രൂപകൽപ്പന ചെയ്യണം ഞാൻ അതിനെ n എന്ന് എഴുതി ഇവിടെ n ഒരു വേരിയബിൾ ആണ് n തിരഞ്ഞെടുത്തത് എന്തെന്നാൽരൂപകൽപ്പന ചെയ്ത പ്രോട്ടീൻ ശരിയായി ഫോൾഡ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് n പരീക്ഷണാത്മകമായി നിർണ്ണയിക്കപെട്ടതാണ് ഇത് ചെയ്യുന്നതിലൂടെയും ഒന്നിലധികം വ്യത്യസ്ത കൺസ്ട്രക്ക്ടസ് തിരഞ്ഞെടുക്കുന്നതിലൂടെയും ഒന്നിലധികം ഡൊമെയ്നുകളുടെ ഫോൾഡിങ് സിഗ്നേച്ചർ നിങ്ങൾക്ക് നിർണ്ണയിക്കാനാകും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിച്ചതും ഹ്രസ്വമായി സംസാരിച്ചതുമായ ഒരു കാര്യം റേറ്റിനെ ആശ്രയിച്ചുള്ള സ്ഥിരതയെക്കുറിച്ച് ആണ് ഞാൻ റേറ്റ് ആശ്രിത സ്ഥിരത എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് റേറ്റ് ആശ്രിത സ്ഥിരതയാൽ ഞാൻ അർത്ഥമാക്കുന്നത് വലിക്കുന്ന റേറ്റ് Rate മാറ്റുന്നതിലൂടെ അൺ ഫോൾഡിങ് ഫോഴ്സുകൾ മാറുന്നു എന്നാണ് അത് എങ്ങനെയാണു മാറുന്നത് അതിനാൽ അനവധി തവണ അല്ലെങ്കിൽ കൂടിയും നിങ്ങൾ കാണുക എന്തെന്നാൽ ഒരു നിശ്ചിത ടിപ്പ് വേഗതയിൽ ലഭിക്കുന്ന പ്ലോട്ടുകൾ ആണ് ഇവ അപ്പോൾ ഇവിടെ നിങ്ങൾ മാറ്റുന്നത് ഈ ടിപ്പ് വേഗതയാണ് ഇത് ഒരു മില്ലിസെക്കൻഡിൽ 5 നാനോമീറ്റർ എന്നു പറയാം ഇത് ഒരു മില്ലിസെക്കൻഡിൽ 0 5 നാനോമീറ്ററാണ് ഇത് ഒരു മില്ലിസെക്കൻഡിൽ 0 05 നാനോമീറ്ററാണ് ശരി അപ്പോൾ ഈ അക്ഷം ഫ്രീക്വൻസിയാണ് ഈ അക്ഷം ഫോഴ്സും നിങ്ങൾ ഒന്നിലധികം വ്യത്യസ്ത ഡൊമെയ്നുകൾക്കായി ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ടിപ്പ് വേഗത അല്ലെങ്കിൽ വലിക്കുന്ന നിരക്ക് ആണ് ഞാൻ മൂന്ന് വ്യത്യസ്ത ഡൊമൈനുകളെ പ്രതിനിധീകരിക്കുന്ന നിരക്ക് ആശ്രിത ഫോഴ്സുകൾ വരച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ A വലിക്കുന്ന നിരക്കിനോട് പരമാവധി സെൻസിറ്റിവിറ്റിയുള്ളതും C വലിക്കുന്ന നിരക്കിനോട് തീർത്തും സെൻസിറ്റിവിറ്റി ഇല്ലാത്തതുമാണ് ഫൈബ്രോണെക്റ്റിന്റെ കാര്യത്തിൽ ഉദാഹരണത്തിന് F N 3 യെ സംബന്ധിച്ചിടത്തോളം F N 3 യുടെ ആദ്യ ഡൊമെയ്ൻA1 ഫോഴ്സുകളോട് പരമാവധി സെൻസിറ്റീവ് ആണെന്നും പത്താമത്തെ ഡൊമെയ്ൻ അതിനെ D 10എന്ന് നമുക്ക് പറയാം F N 3 യുടെ പത്താമത്തെ ഡൊമെയ്നിൽ RGD സീക്വൻസ് അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇതിന് ശരാശരി വലിക്കുന്ന ഫോഴ്സുകളോട് ഉള്ളസെൻസിറ്റിവിറ്റികുറവാണ് അപ്പോൾ ഒരു സെൽ വളരെയധികം ഫോഴ്സ് ചെലുത്തുകയും അതിൻ ഫലമായി മുഴുവൻ പ്രോട്ടീനും ഫോൾഡ് ചെയ്യുകയാണെങ്കിൽആ പ്രോട്ടീന്റെ Protein ധർമ്മം തന്നെ ഇല്ലാതാവുമോ അതോ ഇല്ലയോ കാണാൻ സാധിക്കുന്നത് എന്തെന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ ടിപ്പിനെ വിടുവിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് നിലനിർത്തുകയോ ചെയ്താൽ ക്ഷമിക്കണം ഭാഗികമായി വലിച്ച ശേഷം ടിപ്പിനെ വിടുവിക്കുക ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കാണുവാൻ സാധിക്കുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് വലിച്ചതിൻറെ കോൺഫിഗറേഷനാണ് ഈ ബിന്ദുവിൽ നിന്ന് ടിപ്പ് താഴേക്ക് പോവുന്നു തുടർന്ന് നിങ്ങൾ വീണ്ടും വലിക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നത് എന്തെന്നാൽ ഈ സമയം നിങ്ങൾ ടിപ്പ് മോചിപ്പിക്കുകയും പ്രോട്ടീൻ വിടുവിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രോട്ടീനിനെ വീണ്ടും ഫോൾഡ് ചെയ്യുന്നതിന് അനുവദിക്കുന്നു വീണ്ടും ഫോൾഡ് ചെയ്യുന്നതിൻറെ സിഗ്നേച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇതാണ് പ്രോട്ടീൻ സിഗ്നേച്ചർ അഥവാ പ്രോട്ടീൻ അൺ ഫോൾഡിങ് സിഗ്നേച്ചർ ഡെൽറ്റ t 𝚫t 0 1 സെക്കൻഡ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനുശേഷം നിങ്ങൾ വീണ്ടും വലിച്ചാൽ നിങ്ങൾക്കു യാതൊരു ഫോൾഡിങ് സിഗ്നേച്ചറുകളും കാണാൻ സാധിക്കില്ല ഒരു സെക്കൻഡിന് ശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഇങ്ങിനെയാവും വീണ്ടും 10 സെക്കൻഡ് ശേഷമാണെങ്കിൽ ഇങ്ങിനെയാണു ലഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഭാഗികമായ ഫോൾഡിങ്ങിനെ സൂചിപ്പിക്കുന്നതും ഇത് പ്രോട്ടീൻ പൂർണമായും ഫോൾഡ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നതും ആണ് നിങ്ങൾക്ക് പീക്കുകളുടെ സമയ കാലതാമസ ശതമാനം പ്ലോട്ട് ചെയ്യാൻ കഴിയും ഈ പീക്കുകളുടെശതമാനം എന്നാൽ എന്താണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് എത്ര പീക്കുകൾ ലഭിക്കുന്നു എന്നതാണ് അതിനാൽ ഇവിടെ ഈനിശ്ചിത മൂല്യത്തിൽ ഒരു നിശ്ചിത സമയ കാലതാമസത്തിൻറെ മൂല്യത്തിനപ്പുറം ഇത് 100 ശതമാനമാകും അപ്പോൾ നിങ്ങളുടെ സമയ കാലതാമസം തുച്ഛമാണെങ്കിൽ നിങ്ങൾ ഒരു കുറഞ്ഞ മൂല്യം ആണ് കാണുക ഉദാഹരണത്തിന് 10 ശതമാനം എന്ന് പറയാം അതിനാൽ അത് ഇപ്പോഴും സൂചിപ്പിക്കുന്നത് പീക്കുകളിൽ ഒന്ന്പൂർണ്ണമായും വീണ്ടും ഫോൾഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നിങ്ങൾ കാണുന്നതെന്തെന്നാൽ പൂർണ്ണമായി അൺ ഫോൾഡ് ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് ഡൊമെയ്ൻ മൊഡ്യൂൾ നോക്കാം ഇത് പൂർണ്ണമായി അൺ ഫോൾഡ് ചെയ്യുന്നത് 160 നാനോമീറ്ററിൽ നിന്ന് 950 നാനോമീറ്ററിലേക്ക് വിപുലീകരിക്കുന്നതിലേക്ക് നയിക്കും ഒരു മൊഡ്യൂൾ അൺ ഫോൾഡിങ് പോലും ഉണ്ടാക്കുന്ന ദൈർഘ്യത്തിൻറെ വർദ്ധനവ് ആണ് നിങ്ങൾ കാണുന്നത് ഒരു മൊഡ്യൂൾ 160 നാനോമീറ്ററിൽ നിന്ന് 950 നാനോമീറ്ററിലേക്ക് വിപുലീകരിക്കുന്നതിലേക്ക് നയിക്കും മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അൺ ഫോൾഡ് ഫോഴ്സുകൾ എങ്ങനെ കാണപ്പെടും അൺ ഫോൾഡിങ് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് ഓർഡർ പറയുകയാണെങ്കിൽ 100 മുതൽ 300 വരെ പൈക്കോന്യൂട്ടണുകൾ ആണ് കൂടാതെ സെല്ലുകൾക്ക് 200 പൈക്കോന്യൂട്ടണുകൾ വരെയുള്ള ഫോഴ്സിന്റെ ഓർഡറുകൾ ചെലുത്താൻ ആവുമെന്നറിയാം അതിനാൽ ശാരീരിക സാഹചര്യങ്ങളിൽ ഫൈബ്രോണെക്റ്റിൻ അൺ ഫോൾഡ് ചെയ്യുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു അവസാനത്തെപോയിൻറ് അൺ ഫോൾഡിങ്ങിലൂടെ എന്താണ് നേടുന്നത് അതിനാൽ ഡൊമെയ്ൻ അൺ ഫോൾഡിങ് ഒരർത്ഥത്തിൽ ഇലാസ്തികതയും തീർച്ചയായും സിഗ്നലിംഗും മോഡുലേറ്റു ചെയ്യുന്നു എനിക്ക് ഫോഴ്സ് പീക്ക് നമ്പർ വരയ്ക്കണമെങ്കിൽ തുടക്കത്തിൽ ഉള്ളവയ്ക്ക് നിങ്ങൾക്ക് ഒരു ലീനിയർ ഫോഴ്സ് കർവ് ലഭിക്കും അതായത് ഫോഴ്സിന്റെ വർദ്ധനവുണ്ടാകും ആദ്യം അൺ ഫോൾഡ്ചെയ്യുന്നത് പതിമൂന്നാമത്തെ FN III ആയിരിക്കും ഏറ്റവും ഉയർന്ന ഫോഴ്സുകളുടെ കൂട്ടത്തിലായിരിക്കും ഡൊമെയ്ൻ 1 ഡൊമെയ്ൻ 2 എന്നിവ അതിനാൽ ഇവ ഏറ്റവും ഉയർന്ന ഫോഴ്സുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ കാണുന്നത് ഫോഴ്സുകളുടെ വലിയ വർദ്ധനവ് ഉണ്ടാവുന്നതാണ് ഫോഴ്സുകൾ ഡൌൺസ്ട്രീം ആയിട്ടുള്ള സിഗ്നലിംഗ് കാസ്കേഡിനെയും പ്രോട്ടീന്റെ ഫലപ്രദമായ ഇലാസ്തികതയെയും നിയന്ത്രിക്കുന്നു അപ്പോൾ ECM പ്രോട്ടീനുകളെക്കുറിച്ചും ECM ശൃംഖലയുടെ തലത്തിലോ ഒറ്റ ആയിട്ടുള്ള പ്രോട്ടീനുകളുടെ തലത്തിലോ നോൺ ലീനിയർ ഇലാസ്തികത എങ്ങനെയാണ് എൻകോഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച ഞാൻ അവസാനിപ്പിക്കുന്നു റീഡിംഗ് അസൈൻമെന്റിന്റെ ഭാഗമായി ഇനി പറയുന്ന രണ്ട് കേസുകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽദയവായി ഈ രണ്ട് പേപ്പറുകൾ വായിക്കുക ഇതിലൂടെ ഫൈബ്രോനെക്റ്റിൻ അൺഫോൾഡിങ്ങിനെകുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിക്കും ഈ രണ്ട് പേപ്പറുകളും ഫൈബ്രോണെക്റ്റിൻ അൺഫോൾഡിങ്ങിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളിൽ ഞാൻ ചർച്ച ചെയ്ത മിക്കതും ആദ്യത്തെ JMB പേപ്പറിൽ നിന്നാണ് അപ്പോൾ ECM പ്രോട്ടീനുകളെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നു ഇനി ഞാൻ വീണ്ടും ഒരു കൂടാരത്തിനോട് ഉള്ളനമ്മുടെസെല്ലിന്റെ സാമ്യതയിലേക്ക് മടങ്ങിവരാം നിങ്ങൾക്ക് കൂടാരത്തിന് സമമായി ഒരു സെൽ ഉണ്ട് അതിന് പ്ലാസ്മ മെംബ്രേയ്ൻ ECM ഫോക്കൽ അഡ്ഹെഷനുകൾ കൂടാതെ സൈറ്റോസ്കെലിട്ടൺ എന്നീ നാല് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ചർച്ചചെയ്തു അപ്പോൾ ഇതാണ് നാല് കാര്യങ്ങൾ പ്ലാസ്മ മെംബ്രേയ്ൻ ECM ഫോക്കൽ അഡ്ഹെഷനുകൾ സൈറ്റോ സ്കെലിട്ടൺ ശരി സെൽ ആകൃതി സ്ഥിരപ്പെടുത്തുന്നതിന് ആവശ്യമായ നാല് കാര്യങ്ങളാണിവ ഇവയിൽ ECM എന്താണെന്ന് നമ്മൾ ചർച്ചചെയ്തു ഇപ്പോൾ നമ്മൾ ഫോക്കൽ അഡ്ഹെഷനുകളെക്കുറിച്ച് ചർച്ചചെയ്യാൻ പോകുന്നു ഫോക്കൽ അഡീഷനുകളുടെ ധർമ്മം എന്താണ് ഈ ഫോക്കൽ അഡ്ഹെഷനുകൾ എന്നാൽ മറ്റൊന്നുമല്ല സെല്ലിനെ പ്രതലവുമായിബന്ധിപ്പിക്കുന്നഫിക്സ്ചറുകൾ ആണ് ഞാൻ ഒരു സെൽ വരയ്ക്കുകയാണെങ്കിൽ ഇവയെല്ലാം അതിനകത്തുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ന്യൂക്ലിയസ് ഇതാണ് നിങ്ങളുടെ ഫോക്കൽ അഡ്ഹെഷൻ F A കൂടാതെ പുറത്ത് സെല്ലുലാർമാട്രിക്സ് ഉണ്ട് അതിനാൽ ഈ ഫോക്കൽ അഡ്ഹെഷനുകൾ ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അഡ്ഹെറൻറ്സെല്ലുകൾ ഒരേസമയം അടിത്തട്ടുമായിബന്ധിപ്പിച്ച അവസ്ഥയിലുംഎന്നാൽ മറ്റൊരിടത്തേക്ക് പ്രയാണം ചെയ്യാവുന്ന അവസ്ഥയിലും ആയിരിക്കണം അപ്പോൾ സെല്ലുകൾ പ്രത്യക്ഷത്തിൽ ഇതിൽ ബന്ധിക്കപ്പെടുകയും എന്നാൽ ഒപ്പം തന്നെ പ്രയാണം ചെയ്യാൻ കഴിയുകയും വേണം ബന്ധിപ്പിക്കുന്ന ഫിക്സ്ചറുകളുടെ രൂപകൽപ്പനയിൽ ഏത് തരത്തിലുള്ള ആവശ്യകതയാണ് ഇത് കൊണ്ടുവരുന്നത് ഫിക്സ്ചർ രൂപകൽപ്പനയെക്കുറിച്ച് F A രൂപകൽപ്പനയെക്കുറിച്ച് എനിക്ക് എന്ത് പറയാൻ കഴിയും ഫോക്കൽ അഡ്ഹെഷൻ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള യഥാർത്ഥ സന്ധിആയി പ്രവർത്തിക്കുന്നതിനാൽ നിങ്ങൾക് ഒരൊറ്റ പ്രോട്ടീൻ ആയിരുന്നു ഉള്ളതെങ്കിൽ സെൽ നീങ്ങുന്നതിനായി അതുമായി എപ്പോഴും ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള സൈറ്റോസ്കെലിട്ടണേയും ECM ശൃംഖലയെ യും വിച്ഛേദിക്കേണ്ടതായി വരും പക്ഷേ അത് ഊർജ്ജിതമായി വളരെ പ്രതികൂലമായ ഒന്നാണ് അതിനാൽ ഏക പ്രോട്ടീൻ വഴിയുള്ളബന്ധം ഊർജ്ജിതമായി പ്രതികൂലമാണ് അപ്പോൾ ഫോക്കൽ അഡ്ഹെഷനുകൾ രൂപകൽപ്പന ചെയ്യേണ്ട രീതിക്ക്മറ്റേതെങ്കിലും സിഗ്നൽ ഉണ്ടായിരിക്കണം സെല്ലുകൾ നീങ്ങുന്നതിനായി സൈറ്റോസ്കെലിട്ടണേ പൂർണ്ണമായും വിച്ഛേദിക്കേണ്ടാത്ത തരം രൂപകല്പന ആയിരിക്കണം അത് അപ്പോൾ ഫോക്കൽ അഡ്ഹെഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഫോക്കൽ അഡ്ഹെഷൻ ഞാൻ ഇതിൻറെ ഘടനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇത് സെല്ലിനുള്ളിലാണ് ഇത് പുറത്താണ് അതിനാൽ ഞാൻ പ്രസ്താവിക്കുന്നത് എന്തെന്നാൽ ഫോക്കൽ അഡിഷന്റെ രൂപകൽപ്പനയിൽ ചില ട്രാൻസ് മെംബ്രേയ്ൻ പ്രോട്ടീൻ ഉണ്ടായിരിക്കാം അവ ചില സൈറ്റോ സ്കെലിട്ടൽ പ്രോട്ടീനുമായിമായും തുടർന്ന് ന്യൂക്ലിയസിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വസ്തുക്കളുണ്ട് A സെല്ലിന്റെ അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുകയും ECM യുമായി സംവദിക്കുകയും ചെയ്യുന്നു കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു വസ്തു B ഉണ്ട് അത് A യുമായി സംവദിക്കുകയും ഒപ്പം തന്നെ CSK യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു CSK സൈറ്റോ സ്കെലിട്ടൺ എന്നതിൻറെ ഹ്രസ്വ രൂപമാണ് അതിനാൽ സെൽ ചലിക്കുമ്പോൾ A യിൽ നിന്ന് Bവേർപെടുകയും അതിലൂടെ Aവീണ്ടും ഡീ പോളിമറൈസ് ചെയ്യാനും പുറത്തേക്ക് വന്ന് അവിടെ നിലനിൽക്കാനും അനുവദിക്കും തുടർന്ന് B അതിനോട് യോജിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചലനാത്മകത ലഭിക്കും അപ്പോൾ ഈ ഫിക്സ്ചറുകൾ അല്ലെങ്കിൽ ഫോക്കൽ അഡ്ഹെഷനുകൾ അന്ധമായ സെല്ലിന്റെ കണ്ണുകളായി വർത്തിക്കുന്നു മാത്രമല്ല ഞാൻ കാണിച്ച ലളിതമാക്കിയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഫോക്കൽ അഡ്ഹെഷൻറെ രൂപകൽപ്പന ഒരു സെല്ലിൽ ഒതുങ്ങുന്നതല്ല അതിൽ 100 ൽ കൂടുതൽ പ്രോട്ടീനുകളുണ്ട് അതിനാൽ നിങ്ങൾക്ക് 100 ൽ കൂടുതൽ പ്രോട്ടീനുകൾ ഫോക്കൽ അഡ്ഹെഷനിൽ കാണാനാകും കൂടാതെ ഫോക്കൽ അഡ്ഹെഷനുകൾക്ക് വിവിധ ധർമ്മങ്ങളുണ്ട് അപ്പോൾ 100 ൽ അധികം പ്രോട്ടീനുകൾ ഉണ്ട് അവയ്ക്ക് 0 5 മുതൽ 1 മൈക്രോൺ സ്ക്വയർ M വരെയും 3 മുതൽ 10 മൈക്രോൺ സ്ക്വയർ വരെയുമുള്ള വളരെ വിശാലമായ വിതരണവും ഉണ്ടാവാം അതിനാൽ ഈ അഡ്ഹെഷനുകൾക്ക് വിസ്താരത്തിന് അനുസരിച്ച് രണ്ട് വ്യത്യസ്ത വിതരണമുണ്ടെന്ന് നിങ്ങൾ വ്യക്തമായി കാണുന്നു സെല്ലിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ ആയി അവ സ്ഥിതി ചെയ്യുന്നു ഈ ഫോക്കൽ അഡ്ഹെഷനുകളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഫോക്കൽ അഡിഷനുകളുടെ ഹ്രസ്വ രൂപമാണ് FA'S അതിനാൽ അവ സെല്ലിനെ സ്ഥിരപ്പെടുത്തുന്ന അല്ലെങ്കിൽ സെൽ ആകൃതി ഉറപ്പിക്കുക എന്ന ഭൌതിക കർത്തവ്യം ചെയ്യുന്നു കൂടാതെ യഥാർത്ഥത്തിൽ അവയാണ് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നത് ഫോക്കൽ അഡ്ഹെഷനുകളിലൂടെ സെല്ലുകൾ എങ്ങനെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നു ഫോഴ്സ് ട്രാൻസ്ഡക്ഷനിലൂടെ അതിനാൽ നിങ്ങൾക്ക് വലിക്കുന്നഫോഴ്സുകൾ അഥവാ ചുരുങ്ങുന്നതിൻറെ ഫോഴ്സുകൾ ഉണ്ടാകാം നിങ്ങൾക്ക് തള്ളുന്ന ഫോഴ്സുകളുണ്ടാകാം കൂടാതെ നിങ്ങൾക്ക് രൂപമാറ്റവും ഉണ്ടാവാം വലിക്കുന്നഫോഴ്സുകൾ എന്നത് സെല്ലുകളിൽ ചുളിവുകൾ ഉണ്ടാവാൻ പ്രേരിപ്പിക്കുന്ന ചുരുങ്ങുന്നതിൻറെ ഫോഴ്സുകൾ ആണ് ഞാൻ സെല്ലുകളിൽ ചുളിവുകളുടെ സാന്നിധ്യം കണ്ടു വലിക്കുന്നഫോഴ്സുകൾ ആണ് മാട്രിക്സ്സിൽ ചുളുവുകൾ ഉണ്ടാവാൻ പ്രേരിപ്പിക്കുന്നത് തള്ളുന്ന ഫോഴ്സുകളുടെ ഉദാഹരണം എവിടെയാണ് തള്ളുന്ന ഫോഴ്സുകളുടെ ഒരു കേസ് ഇൻവേഡോപോഡിയയുടെ ഘടനയിലായിരിക്കാം അത് ശരിക്കും ഒരു ഫോക്കൽ അഡീഷൻ ഘടനയല്ല മറിച്ച് ഇൻവാഡോപോഡിയയിൽ ഫോക്കൽ അഡീഷനുകൾക്ക് സമാനമായ ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ പ്രതലത്തിൽസ്ഥിതി ചെയ്യുന്ന ഫോക്കൽ അഡിഷനുകൾക്ക് വിപരീതമായി ഒരു ഇൻവാഡോപോഡിയ യഥാർത്ഥത്തിൽ അതിന്റെ മാട്രിക്സിനകത്തേക്ക് ഉന്തി നിൽക്കുന്നു അപ്പോൾ ഇതാണ് മാട്രിക്സ് അതിനാൽ സെല്ലുകൾയഥാർത്ഥത്തിൽ മാട്രിക്സിലേക്ക് നീണ്ടുനിൽക്കുന്ന ഘടനയിലാണ് അതിനാൽ തള്ളുന്ന ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നത് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും അപ്പോൾ ഫോക്കൽ അഡീഷനുകൾ എന്താണെന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ പ്രാഥമിക ധാരണ ഇത് പൂർത്തിയാക്കുന്നു അപ്പോൾ ഫോക്കൽ അഡിഷനുകളിൽ ധാരാളം പ്രോട്ടീനുകൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീനുകളിൽ ഒന്നാണ് ഇന്റഗ്രിൻ മെംബ്രേയ്നിൽ ഉടനീളം കാണപ്പെടുന്ന മെംബ്രേയ്നിനു കുറുകെ കാണപ്പെടുന്ന ട്രാൻസ്മെംബ്രേയ്ൻ പ്രോട്ടീൻ ആണ് ഇന്റഗ്രിൻ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റഗ്രിൻ ഉണ്ട് രണ്ട് ഉപ യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്റഗ്രിൻ ഇവ ആൽഫയും Aplha 𝝰 ബീറ്റയുമാണ് Beta 𝝱 കൂടാതെ ECM പ്രോട്ടീന്റെ തരം അനുസരിച്ച് ഈ ഉപ യൂണിറ്റുകൾ നോൺ കോവാലന്റ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇന്റഗ്രിനുകളുടെ ചില കോമ്പിനേഷനുകൾ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ ഞാൻ മധ്യത്തിൽ വരച്ചത് ബീറ്റ 1 β 1 ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബീറ്റ 1 β 1 പലഇന്റഗ്രിൻ കോമ്പിനേഷനുകളിലും സാധാരണമാണ് അപ്പോൾ ഈ കൊളാജൻ റിസപ്റ്ററുകൾക്കെല്ലാം നിങ്ങൾക്ക് ആൽഫ 1𝝰 1 ബീറ്റ 1 β 1എന്നിവ ഉണ്ടായിരിക്കാം കൊളാജനുമായി ബന്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ആൽഫ 1 𝝰 1 ബീറ്റ 1 β 1 ആൽഫ 2 𝝰 2 ബീറ്റ 1β 1 ആൽഫ 10𝝰 10 ബീറ്റ 1β 1 ആൽഫ 11𝝰 11 ബീറ്റ 1 β 1 എന്നിവ ആണ് ഉള്ളത് അതുപോലെ RGD യുമായി ബന്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ആൽഫ 5 𝝰 5 ബീറ്റ 1β 1 ആൽഫ 8 𝝰 8 ബീറ്റ 1 β 1എന്നിവയും കൂടാതെ നിങ്ങൾക്ക് ആൽഫ വി 𝝰 v ബീറ്റ 3β 3 ആൽഫ വി 𝝰 v ബീറ്റ 5 β 5എന്നിവയും മറ്റും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ലാമിനിനുമായി ബന്ധിപ്പിക്കുന്നതിന് മറ്റ് പല കോമ്പിനേഷനുകളും ഉപയോഗിക്കാം അതിനാൽ ആകെ 18 ആൽഫയും 8 ബീറ്റβ ഉപ യൂണിറ്റുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം വ്യത്യസ്ത കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഫൈബ്രോബ്ലാസ്റ്റിൽ മിക്ക കാൻസർ സെല്ലുകളിലും ആൽഫ 2 𝝰 2 ബീറ്റ 1β 1 ആൽഫ 1 𝝰 1 ബീറ്റ 1 β 1 വളരെ സാധാരണമാണ് അതോടെ ഞാൻ ഇന്നത്തേക്ക് ഇവിടെ നിർത്തുന്നു അടുത്ത ക്ലാസ്സിൽ ഫോക്കൽ അഡ്ഹെഷൻ പ്രോട്ടീനുകളെക്കുറിച്ച് കൂടുതൽ ചർച്ചചെയ്യുകയും തുടർന്ന് ഫോക്കൽ അഡ്ഹെഷനുള്ളിലെ അവയുടെ ഘടനാപരമായ സ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ചോ ചർച്ച ചെയ്യും